ടെയിലിൻ്റെ മൊഡ്യൂൾ 1 ൻ്റെ യൂണിറ്റ് 2 ലേക്ക് സ്വാഗതം യൂണിറ്റിൽ വിദ്യാഭ്യാസം അദ്ധ്യാപനം എന്നീ പദങ്ങൾ നോക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ ആദ്യത്തെ യൂണിറ്റിൽ എന്താണ് ചെയ്തതെന്ന് അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി നിരവധി പ്രഖ്യാപിത ഫലങ്ങൾ നിറവേറ്റുന്നതിന് പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന കോളേജിനോ ഡിപ്പാർട്ട്മെന്റിനോ അതിന്റെ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യുകയും നടത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പ്രസ്താവിച്ചു അതിനാൽ ഇത് ഒരു പ്രത്യേക വിദ്യാർത്ഥിയെയോ വിഷയത്തെയോ അടിസ്ഥാനമാക്കി ഒരു കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നില്ല ഇത് അതിനേക്കാൾ വളരെ കൂടുതലാണ് അനേകം പ്രഖ്യാപിത ഫലങ്ങൾ കൈവരിക്കുന്നതിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടത്തുകയും വേണം അതാണ് ഞങ്ങൾ പ്രസ്താവിച്ചത് ഈ പ്രത്യേക ആവശ്യകത ശക്തിപ്പെടുത്തുന്നത് ഞങ്ങൾ തുടരും എഞ്ചിനീയറിംഗ് സയൻസുകളെയും സാങ്കേതികവിദ്യകളെയും കുറിച്ച് നല്ല അറിവ് കൂടാതെ ഒരു നല്ല എഞ്ചിനീയറുടെ പ്രധാന സവിശേഷതകളും ഉണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കി മറ്റ് ആവശ്യകതകൾ ഞങ്ങൾ അവയെ പ്രൊഫഷണൽ ആവശ്യകതകളായി തരം തിരിക്കാം അതേസമയം എഞ്ചിനീയറിംഗ് സയൻസുകളെയും സാങ്കേതികവിദ്യയെയും കുറിച്ചുള്ള ശരിയായ അറിവ് വിജ്ഞാന ശാഖയുടെ ആവശ്യകതകളാണ് അതിനാൽ ഒരു ബിരുദ എഞ്ചിനീയർക്ക് വിജ്ഞാന ശാഖാപരവും തൊഴിൽപരവും ആയ ആവശ്യകതകളും പ്രധാനമാണ് ഇപ്പോൾ ഈ പ്രത്യേക യൂണിറ്റ് 2 ലേക്ക് വരുന്നതിലൂടെ ഫലം "വിദ്യാഭ്യാസം" "അദ്ധ്യാപനം" എന്നീ പരിചിതമായ പദങ്ങളിലേക്ക് വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നു ആദ്യ യൂണിറ്റിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ "വിദ്യാഭ്യാസം" "അദ്ധ്യാപനം" എന്നിവ പ്രത്യേകിച്ചും അധ്യാപകർക്ക് പരിചിതമായ 2 വാക്കുകളാണ് കാരണം അത് അവരുടെ തൊഴിലാണ് പക്ഷേ ഔദ്യോഗികമായി ആ വാക്കുകൾ വീണ്ടും അവതരിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതാണ് ഈ പ്രത്യേക യൂണിറ്റിൻ്റെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസം അതിന്റെ വിശാലമായ അർത്ഥത്തിൽ വ്യക്തിയുടെ ചിന്ത സ്വഭാവം അല്ലെങ്കിൽ ശാരീരിക കഴിവ് എന്നിവയെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തെയോ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തെയോ സൂചിപ്പിക്കുന്നു അതുപോലുള്ള എന്തും വിദ്യാഭ്യാസമായി കണക്കാക്കപ്പെടുന്നു ഈ അർത്ഥത്തിൽ വിദ്യാഭ്യാസം ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മൾ തുടർച്ചയായി പുറംലോകവുമായി ഇടപഴകുന്നു പുറത്തു നിന്നുള്ള സംഭവങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകും അവ നമ്മളിൽ ചില സ്വാധീനം ചെലുത്തും ഈ പരിധി വരെ വിദ്യാഭ്യാസം ഒരിക്കലും അവസാനിക്കുന്നില്ല അത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകുന്നു അതേസമയം വിദ്യാഭ്യാസം സാങ്കേതിക അർത്ഥത്തിൽ സമൂഹം അതിൻ്റെ "സാംസ്കാരിക പൈതൃകം" മനഃപൂർവ്വം കൈമാറുന്ന പ്രക്രിയയാണ് "സാംസ്കാരിക പൈതൃകം" എന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശേഖരിച്ച അറിവ് മൂല്യങ്ങൾ കഴിവുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഇവിടെ ഈ സന്ദർഭത്തിലെ വിദ്യാഭ്യാസം നിങ്ങൾ മനഃപൂർവ്വമായ പഠനം എന്ന് വിളിക്കുന്നതിനോട് ബന്ധപ്പെട്ടതാണ് കൂടാതെ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും മനഃപൂർവമായ പഠനം നടക്കുന്നു അതിനർത്ഥം നിങ്ങൾ ഒരു സ്കൂളിലോ കോളേജിലോ പ്രവേശിക്കുമ്പോഴോ ഒരു നിർദ്ദിഷ്ട പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുമ്പോഴോ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തവർ പഠിതാവ് പഠിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയും അതിനാൽ ഔപചാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്നത് മനഃ പൂർവ്വമായ പഠനമാണ് ഇപ്പോൾ ഇവിടെ വലിയ ചോദ്യം വരുന്നു അതിനാൽ നിങ്ങൾക്ക് ആളുകളെ വിവേകത്തോടെ പഠിപ്പിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ എന്തൊക്കെ അഭ്യസിപ്പിക്കുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കണം വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കുന്നത് തീരുമാനമെടുക്കുന്ന ഈ പ്രക്രിയയിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ചോദ്യങ്ങൾ പെട്ടെന്ന് കാണുന്നു ഞങ്ങൾ അതിനെ "വിദ്യാഭ്യാസ തത്ത്വചിന്ത" എന്ന് വിളിക്കുന്നു അതിനാൽ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് അറിയാൻ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്തായിരിക്കാമെന്നും അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കണമെന്നും ചോദിക്കേണ്ടത് ആവശ്യമാണ് വിദ്യാഭ്യാസത്തെ ദാർശനികമായി പരിഗണിക്കാൻ ഇത് ആവശ്യമാണ് വിദ്യാഭ്യാസ തത്ത്വചിന്ത പ്രത്യേകിച്ചും ഒരു വിഷയമായ വിദ്യാഭ്യാസത്തിന് ഔപചാരിക തത്ത്വചിന്ത പ്രയോഗിക്കുന്നത് ഉൾപ്പെടുന്നു ഔപചാരിക തത്ത്വചിന്ത ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ വിദ്യാഭ്യാസ തത്ത്വചിന്ത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതേ ചോദ്യം പ്രത്യേകമായി ചോദിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസ തത്ത്വചിന്തയെ വിശദമായി കൈകാര്യം ചെയ്യാൻ പോകുന്നില്ല ആവശ്യമായതെല്ലാം ചില വിദ്യാഭ്യാസ തത്ത്വചിന്തയുടെ കുടക്കീഴിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കില്ല വിശാലമായി തത്ത്വചിന്തകളെ തരം തിരിക്കാം വീണ്ടും ഈ വർഗ്ഗീകരണം സാർവത്രിക വർഗ്ഗീകരണമല്ല ആളുകൾക്ക് അതിനോട് വിയോജിപ്പുണ്ടാകാം അതിനാൽ ഞാൻ തത്ത്വചിന്തയുടെ ഒരു സൌകര്യപ്രദമായ വർഗ്ഗീകരണം എന്ന് വിളിക്കുന്നത് ആദർശവാദം റിയലിസം പ്രായോഗികത അസ്തിത്വവാദം വിശകലനം എന്നിവയാണ് ഞങ്ങൾ ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലൂടെ കടന്നുപോകാൻ പോകുന്നില്ല ഒന്നിൻ്റെ ഉദാഹരണം പറയാംആ സാമ്പിളിനെ "പ്രായോഗികത" എന്ന് വിളിക്കും പ്രായോഗികതക്ക് എന്താണ് തത്ത്വചിന്തയുടെ ഒരു വീക്ഷിണരീതിയിൽ പ്രസക്തി അതിനാൽ അതിനടിയിൽ വിദ്യാഭ്യാസ തത്ത്വചിന്ത എങ്ങനെ കാണപ്പെടും ഒന്നാമതായി പ്രായോഗികത ഇത് പ്രായോഗികവും പ്രയോജനപ്രദവുമായ തത്ത്വചിന്തയാണ് എല്ലാ സമയത്തും ശരിയായിരിക്കുന്ന ആശയങ്ങളുടെ ഒരു വ്യവസ്ഥാപരമായ സംവിധാനമില്ല ഇത് പ്രായോഗികതയാൽ ഉണ്ടാക്കിയ ഒരു അനുമാനമാണ് അത് പല ഇന്ത്യൻ തത്ത്വചിന്തകളും അംഗീകരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രായോഗികവാദികൾ വ്യക്തിയുടെ അഭിരുചികൾക്കും കഴിവുകൾക്കും അനുസൃതമായി വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നു വ്യക്തി ബഹുമാനിക്കുകപ്പെടുകയും വിദ്യാഭ്യാസം അവൻ്റെ താല്പര്യങ്ങളും കഴിവുകളും നിറവേറ്റാനും ആസൂത്രണം ചെയ്യണം ഇത് എല്ലാ അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനമായി പ്രവർത്തനത്തെ മാറ്റുന്നു നിങ്ങൾ പ്രായോഗികതയുടെ വീക്ഷിണരീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എല്ലാ അധ്യാപനത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനം പ്രവർത്തനമാണ് അതിനർത്ഥം അധ്യാപകരും വിദ്യാർത്ഥിയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം അല്ലെങ്കിൽ ആയിരിക്കണം മാത്രമല്ല അത് കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതുപോലുള്ള ഒരു പ്രവർത്തനമല്ല അതിനാൽ ഇത് ഒരു തത്ത്വചിന്തയാണ് അല്ലെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തത്ത്വചിന്തയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതാണ് ഉന്നതവിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഉന്നതവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ അത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ സംഭവിക്കുന്ന രീതി പോലെ സാർവത്രികമല്ല ആകാൻ കഴിയില്ല കാരണം വിദ്യാഭ്യാസ ശാസ്ത്രപ്രകാരം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിശാലമായ വീക്ഷിണരീതികളുണ്ട് ഏതുതരം വ്യക്തിയാണ് നിങ്ങൾ പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ ലക്ഷ്യങ്ങൾ സാർവത്രികമല്ല അവ വളരെ പ്രത്യേകഗുണമുള്ളവയാകാൻ തുടങ്ങുന്നു പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന സർവ്വകലാശാലകൾ കോളേജുകൾ "ലക്ഷ്യങ്ങൾ" തിരിച്ചറിയുന്നു ഞങ്ങൾ അവയെ "പ്രോഗ്രാം ഫലങ്ങൾ" എന്ന് വിളിക്കാൻ പോകുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ചില ഫലങ്ങൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ നിർവചിക്കുന്നു പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന സർവ്വകലാശാലകളോ കോളേജുകളോ തീരുമാനിക്കുന്നു പ്രൊഫഷണൽ കോഴ്സുകളുടെ കാര്യത്തിൽ ദേശീയ തലത്തിലുള്ള അക്രഡിറ്റിംഗ് ഏജൻസികൾ പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന വകുപ്പിന് ചില സ്വാതന്ത്ര്യങ്ങൾ നൽകിക്കൊണ്ട് പ്രോഗ്രാം ഫലങ്ങൾ നിർവചിക്കുന്നു എൻഎഎസിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രൊഫഷണൽ ഡിഗ്രികൾ ഒഴികെയുള്ളവ നോക്കുമ്പോൾ ഞങ്ങൾ പൊതു പ്രോഗ്രാമുകൾ എന്ന് വിളിക്കുന്നത് പോലെ പ്രോഗ്രാം ഫലങ്ങൾ എന്തായിരിക്കണമെന്ന് എൻഎഎസി ശരിക്കും നിർവചിക്കുന്നില്ല പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന സർവ്വകലാശാലയോ കോളേജോ സ്വന്തം പ്രോഗ്രാം ഫലങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സയൻസ് ഹ്യുമാനിറ്റീസ് സോഷ്യൽ സയൻസ് തുടങ്ങിയ 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുകൾ പോലെ പൊതു പ്രോഗ്രാമുകൾ എന്ന് ഞങ്ങൾ വിളിക്കുന്നവ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് എൻഎഎസിയുടെ കീഴിൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണിത് അതിനാൽ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ തത്ത്വചിന്താപരമായ ചോദ്യങ്ങൾ പ്രാധാന്യം കുറഞ്ഞവയെന്ന് ഞാൻ പറയില്ല എന്നാൽ ചില അർത്ഥത്തിൽ അവ ഇതിനകം തന്നെ അഭിസംബോധന ചെയ്യപ്പെടുകയും അംഗീകാരമുള്ള ഏജൻസി നിർവചിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാം ഫലങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു അറിവ് കഴിവുകൾ മൂല്യങ്ങൾ എന്നിവ നേടാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രക്രിയയാണ് അധ്യാപനം പരിമിതമായ വിദ്യാഭ്യാസ തത്വശാസ്ത്ര വീക്ഷിണരീതി അല്ലെങ്കിൽ നിർദ്ദിഷ്ട സാങ്കേതിക അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ മേൽനോട്ടം വഹിക്കുന്ന അക്രഡിറ്റിംഗ് ഏജൻസിയാണ് നൽകേണ്ട അറിവ് കഴിവുകൾ മൂല്യങ്ങൾ എന്നിവ നിർണ്ണയിക്കേണ്ടത് തിരിച്ചറിഞ്ഞ അറിവ് കഴിവുകൾ മൂല്യങ്ങൾ എന്നിവ നേടാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ അധ്യാപനം അതുകൂടാതെ ആളുകളുടെ ആവശ്യങ്ങൾ അനുഭവങ്ങൾ വികാരങ്ങൾ എന്നിവ നിറവേറ്റുന്ന പ്രക്രിയയാണ് അദ്ധ്യാപനം ആദ്യം ആളുകളുടെ ആവശ്യങ്ങൾ അനുഭവങ്ങൾ വികാരങ്ങൾ എന്നിവ പരിപാലിക്കുകയും തുടർന്ന് ഇടപെടുകയും ചെയ്യുന്നതിലൂടെ പ്രത്യേക കാര്യങ്ങൾ ഒരു മിസ്റ്റർ സ്മിത്ത് നിർവചിച്ചതു പോലെ മനസിലാക്കാൻ അവർ ശ്രമിക്കുന്നു ഇപ്പോൾ എന്താണ് ഈ ഇടപെടലുകൾ ഒരു അധ്യാപകൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്ത് ഇടപെടലുകളാണ് നടക്കുന്നത് എന്ത് തരത്തിലുള്ള ഇടപെടലുകൾ ആണ് ഇടപെടലുകൾ സാധാരണയായി ചോദ്യംചെയ്യുക ശ്രദ്ധിക്കുക വിവരങ്ങൾ നൽകുക അല്ലെങ്കിൽ വിവര കൈമാറ്റം നടത്തുക ചില പ്രതിഭാസ വിശദീകരണം വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രക്രിയ പ്രകടമാക്കൽ ടെസ്റ്റിംഗ് ഗ്രഹണശക്തി ഉൾകൊള്ളാനുള്ള ശക്തി പഠന പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്ന പ്രവർത്തികൾ ഇങ്ങനെ ഒരുപാട് കാരൃങ്ങുളടെ രൂപം എടുക്കുന്നു കുറിപ്പ് എടുക്കൽ ചർച്ച അസൈൻമെൻ്റ് ലേഖനം സിമുലേഷനുകൾ എന്നിവയാണ് കുറച്ച് ഉദാഹരണങ്ങൾ അതിനാൽ ഇടപെടലുകൾ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ അധ്യാപകർ ഇവയുടെ ഒരു ഉപവർഗതരം കൈമാറ്റത്തിനായി തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ അറിവ് കഴിവുകൾ മൂല്യങ്ങൾ എന്നിവ നേടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു അതാണ് അദ്ധ്യാപനം ഇപ്പോൾ ഞങ്ങൾ അദ്ധ്യാപന മാതൃകകൾ എന്ന് വിളിക്കുന്നുവ ഉണ്ട് പഠന മാതൃകകൾ പഠനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അധ്യാപകരെ സഹായിച്ചേക്കാം കൂടാതെ പഠന കേന്ദ്രീകൃത വിദ്യാഭ്യാസ അനുഭവങ്ങൾ ആസൂത്രണം ചെയ്യാൻ അധ്യാപകരെ സഹായിക്കുകയും പുതിയതും മികച്ചതുമായ രൂപങ്ങളുടെ വികസനത്തിനും വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾക്കും ഇത് കാരണമായേക്കാം കാരണം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുമായി എങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് പോലും അതിൽ വീണ്ടും ചില അനുമാനങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനാൽ ആ അനുമാനങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള അധ്യാപനത്തിലേക്ക് നയിക്കുന്നു അധ്യാപനത്തിൻ്റെ മാതൃകകളുടെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോകുന്നില്ല അത് തന്നെ ഒന്നോ രണ്ടോ പ്രത്യേക കോഴ്സ് ആയി മാറുന്നു അദ്ധ്യാപന മോഡലുകളുടെ ഇനങ്ങളുണ്ട് ഇതിനെ ഞങ്ങൾ വിവര പ്രോസസ്സിംഗ് ഇനം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇനം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഓരോ ഇനത്തിനും കീഴിൽ വീണ്ടും 5 6 ചിലപ്പോൾ 8 അദ്ധ്യാപന മോഡലുകൾ ലഭ്യമാണ് അവയെല്ലാം പരീക്ഷിച്ചുനോക്കിയിട്ടുണ്ട് ഈ വിഷയം അദ്ധ്യാപന മോഡലുകളുടെ മാതൃകാപരമായി പഠിപ്പിക്കുന്ന മോഡൽ എന്ന വിഷയം വളരെ പഴയതാണ് ഇതിനെക്കുറിച്ച് ധാരാളം ഗ്രന്ഥസഞ്ചയങ്ങളുണ്ട് നിങ്ങൾക്ക് വിവര പ്രോസസ്സിംഗ് ഇനം ഒരു സ്വകാര്യ ഇനം സാമൂഹിക ഇനം പ്രവർത്തനരീതിവ്യവസ്ഥാ ഇനം എന്നിവയുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു കൂട്ടം അദ്ധ്യാപന മോഡലുകൾ ഉണ്ട് ഒരുപക്ഷേ ഈ പ്രത്യേക അദ്ധ്യാപന മോഡലിന്റെ തിരഞ്ഞെടുപ്പ് സ്കൂൾ തലത്തിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കും അതിനാൽ ഓരോ ഇനത്തിനു കീഴിലുള്ള മോഡലുകളുടെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോകുന്നില്ല എന്നാൽ ആളുകൾ വില്യം ഗ്ലാസറിന്റെ മോഡലിനെ ബിഹേവിയറൽ ഫാമിലി മോഡലിന് കീഴിൽ തരംതിരിക്കുമെങ്കിലും നിങ്ങൾ ഗ്ലാസറിന്റെ അദ്ധ്യാപന മാതൃക തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് ജനറിക് മോഡലാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളോട് വളരെ അടുത്താണ് കോഴ്സ് രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ADDIE മോഡലിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് അതിനോട് വളരെ അടുത്ത് വരുന്നു അതിനാൽ ഞങ്ങൾ ഗ്ലാസർ മോഡൽ ടീച്ചിംഗിൻ്റെ സവിശേഷതകൾ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഇത് 4 ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു പെരുമാറ്റ നിബന്ധനകളിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ഈ പെരുമാറ്റ നിബന്ധനകൾ അതായത് ഒരു പഠന യൂണിറ്റിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് എന്തുചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ എങ്ങനെ പെരുമാറണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ നിർദ്ദേശഉദ്ദശൃങ്ങളെ നിങ്ങൾക്ക് പഠന ലക്ഷ്യങ്ങൾ എന്ന് വിളിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പെരുമാറ്റ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികളുടെ പ്രവേശന സ്വഭാവം എന്താണെന്ന് നിങ്ങൾ വളരെ വ്യക്തമായിരിക്കണം ഒരു വിദ്യാർത്ഥിയെ നാലാം ക്ലാസ് എന്ന് പറയട്ടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെക്കുറിച്ചുള്ള എൻ്റെ കോഴ്സ് പഠിപ്പിക്കാൻ കഴിയില്ല ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ എൻ്റെ കോഴ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും അറിയാമെന്നും ആവശ്യമായ പശ്ചാത്തലമോ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മുൻവ്യവസ്ഥകളോ ഉണ്ടായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു വിദ്യാർത്ഥികളുടെ പെരുമാറ്റരീതിയുമായി പൊരുത്തപ്പെടാത്ത വിധത്തിൽ നിങ്ങളുടെ ഫലങ്ങൾ പ്രസ്താവിക്കുന്നതിൽ അർത്ഥമില്ല ചില സമയങ്ങളിൽ പ്രവേശന സ്വഭാവം നിങ്ങളുടെ കോഴ്സ്നിന് നിസ്സാരമായിത്തീർന്നേക്കാം കാരണം അവർക്ക് ഇതിനകം തന്നെ മിക്കതും അറിയാം അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളും വിദ്യാർത്ഥികളുടെ പ്രവേശന നിലയും തമ്മിൽ അത്തരം ഒരു വിടവ് ഉണ്ടാകാം അതിനാൽ രണ്ടും അസ്വീകാര്യമാണ് അതിനാൽ വിദ്യാർത്ഥികളുടെ പ്രവേശന സ്വഭാവം എന്താണെന്ന് ഒരു കോഴ്സിനായി ആസൂത്രണം ചെയ്യുന്നതിൽ വളരെ വ്യക്തമായിരിക്കണം പ്രവേശന സ്വഭാവത്തിൽ നിന്ന് നിങ്ങളുടെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒപ്പം പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ അവരെ സഹായിക്കുന്ന നിർദ്ദേശ നടപടിക്രമങ്ങൾ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നിട്ട് അത് ചെയ്തുകഴിഞ്ഞാൽ ഇതിനർത്ഥം അധ്യാപകൻ്റെയോ ഇൻസ്ട്രക്ടറുടെയോ ഇടപെടലുകളായി നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം പ്രബോധന ലക്ഷ്യങ്ങൾ അവ എത്രത്തോളം കൈവരിക്കപ്പെട്ടുവെന്ന് അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അവ എത്രത്തോളം നേടിയെടുത്തുവെന്നോ നേടിയതാണെന്നോ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള മാർഗ്ഗമില്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് മുറിയിൽ ചെയ്തതെന്തിനും അർത്ഥമുണ്ടോ അല്ലെങ്കിൽ അവസാനം വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിനാൽ ഒരു പ്രകടനമുണ്ട് പ്രകടന വിലയിരുത്തൽ ഉണ്ട് അതിനർത്ഥം വിദ്യാർത്ഥി പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്രത്തോളം നേടി എന്ന് എനിക്ക് വിലയിരുത്താൻ കഴിയണം ശരി അത് വിശാലമായി 4 ഘട്ടങ്ങളാണ് ചില കോഴ്സുകളിൽ ഈ 4 ഘട്ടങ്ങളും ഞങ്ങൾ കാണും ഒരുപക്ഷേ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ യഥാർത്ഥത്തിൽ കോഴ്സ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ദൃശ്യമാകുന്നു ഉദാഹരണത്തിന് പ്രബോധന ലക്ഷ്യങ്ങൾ പ്രവർത്തനരീതി പദങ്ങളിൽ എങ്ങനെ എഴുതാമെന്നതിൽ മൊഡ്യൂൾ 1 പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നിരുന്നാലും ഈ മോഡലിൻ്റെ വിജയം ലക്ഷ്യങ്ങളുടെ രൂപീകരണം ശരിയായ തന്ത്രങ്ങളുടെ ഉപയോഗം വിലയിരുത്തലിൻ്റെ സാങ്കേതികത എന്നിവ പോലുള്ള കഴിവുകളുടെ കാര്യത്തിൽ അധ്യാപകൻ്റെ കഴിവും ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്തെന്നാൽ എല്ലാ അധ്യാപകരും ഒരുപോലെയല്ല അവരുടെ പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കി അവർക്ക് അവരുടേതായ മുൻഗണനകളുണ്ട് മാത്രമല്ല എല്ലാ അധ്യാപകരും ഒരേ വിഷയം പഠിപ്പിക്കുന്നില്ല അതിനാൽ ഏത് തരത്തിലുള്ള പ്രബോധന നടപടിക്രമങ്ങളും ഏത് തരത്തിലുള്ള ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് നിർണ്ണയിക്കുന്ന വിഷയത്തിൻ്റെ ചില സവിശേഷതകൾ ഉണ്ട് പ്രബോധന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകുമെന്ന് ഉറപ്പാക്കുന്നത് നിങ്ങളുടെ പക്കലുള്ള വിഭവങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും വളരെ വിശാലമായി ഗ്ലാസറിൻ്റെ അദ്ധ്യാപന മാതൃക നമ്മൾ സംസാരിക്കുന്നതിനോട് വളരെ അടുത്താണ് എനിക്ക് തോന്നുന്നു വേറൊന്ന് ഞങ്ങൾ ADDIE എന്ന് വിളിക്കുന്ന ഇൻസ്ട്രക്ഷണൽ മോഡൽ ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം ഡിസൈൻ മോഡൽ ഇപ്പോൾ ഈ പ്രത്യേക യൂണിറ്റിന്റെ അസൈൻമെൻ്റു കളിലേക്ക് വന്നാൽ ഈ അസൈൻമെൻ്റുകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ അദ്ധ്യാപനത്തിൻ്റെ നിരവധി സവിശേഷതകളെ ഈ ഘട്ടത്തിൽ ശരിക്കും അധീനമാക്കാതിരിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം അദ്ധ്യാപനം എന്നീ രണ്ട് പദങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഉദ്ദേശ്യമല്ല അടുത്ത മൊഡ്യൂളിൽ ഞങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് മൂന്ന് വാക്കുകളെക്കുറിച്ചും സംസാരിക്കും എന്നാൽ ഈ രണ്ട് പദങ്ങളെക്കുറിച്ച് അതിനാൽ ഈ രണ്ട് പദങ്ങളും നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ എന്ന് അറിയാൻ പഠിതാവ് ഗ്രന്ഥസഞ്ചയത്തെ സമഗ്രപഠനം നടത്താൻ കുറച്ച് സമയം ചിലവഴിക്കുന്നത് അഭികാമ്യമാണ് അതിനാൽ ഉന്നതവിദ്യാഭ്യാസത്തിൻ്റെ ശാസ്ത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ നൽകുകയാണ് അസൈൻമെൻ്റ് ശരി നിങ്ങളുടെ സ്വന്തം കാരണങ്ങൾ നൽകുക ഇത് കുറച്ച് പ്രസ്താവനകൾ കുറച്ച് വാക്യങ്ങൾ എല്ലാം ആവശ്യമായി വരാം തുടർന്ന് നിങ്ങൾ പരിഗണിക്കുന്ന ഒരു അദ്ധ്യാപനമാതൃക തിരഞ്ഞെടുക്കുക നിങ്ങൾ നിലവിൽ ബന്ധപ്പെട്ട വിഷയം പഠിപ്പിക്കാൻ ആസൂത്രണം ചെയ്യാൻ സഹായകമാകും ലോകമെമ്പാടുമുള്ള പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ലഭ്യമായ പലതിൽ നിന്നും ഏത് മാതൃകയാണ് പഠിപ്പിക്കുന്നത് ഇത് നിങ്ങളുമായുള്ള ആശയവിനിമയത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതൃകയാണ് ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നിങ്ങളുടെ ചോയിസിന് ഒരു ന്യായീകരണം എഴുതുക പരമാവധി 250 വാക്കുകൾ ഇൻ്റർനെറ്റിൽ ഈ വിഷയസംബന്ധിയായ ധാരാളം രചനകളുണ്ട് അതിനാൽ രചനകൾക്കായി തിരയുന്നത് ഒരു പ്രശ്നമല്ല നിങ്ങൾ ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ ചില മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കും അത് നിങ്ങൾക്ക് സമഗ്രപഠനം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ഇൻ്റർനെറ്റ് ലിങ്കുകൾ നൽകും അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ അടുത്ത യൂണിറ്റ് നിലവിലെ യൂണിറ്റുപോലെ പഠനം വിലയിരുത്തൽ നിർദ്ദേശം എന്നീ പരിചിതമായ പദങ്ങൾ വീണ്ടും അവതരിപ്പിക്കും നല്ല പഠനം സുഗമമാക്കുന്നതിൽ മൂല്യനിർണ്ണയത്തിൻ്റെ കേന്ദ്രീകരണവും ഞങ്ങൾ പ്രത്യേകം ഊന്നിപ്പറയുന്നു ശരി ഇനിപ്പറയുന്ന മൊഡ്യൂളിൽ ഈ വാക്കുകളും ഈ ആശയവും ഞങ്ങൾ സമഗ്രപഠനം ചെയ്യുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി